എഞ്ചിനീയർമാർക്കുള്ള കോഴ് സ് ഡാറ്റാ സയൻസിന്റെ ആർ മോഡലിലെ പ്രഭാഷണ 2 ലേക്ക് സ്വാഗതം മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞങ്ങൾ ആർ ആർ സ്റ്റുഡിയോയെക്കുറിച്ച് ഒരു ഹ്രസ്വ ആമുഖം നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു ആർ ഫയൽ എങ്ങനെ സൃഷ്ടിക്കാമെന്നും ആർ ഫയലിൽ ചില കോഡുകൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നും ഞങ്ങൾ കണ്ടു ഒരു R ഫയൽ ഈ പ്രഭാഷണത്തിൽ ആർ ഫയലിലേക്ക് അഭിപ്രായങ്ങൾ എങ്ങനെ ചേർക്കാമെന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നു പരിസ്ഥിതി എങ്ങനെ മായ് ക്കാം ആർ വർക്ക് സ് പെയ് സ് എങ്ങനെ സംരക്ഷിക്കാം ഇപ്പോൾ ആർ ഫയലിൽ അഭിപ്രായങ്ങൾ എങ്ങനെ ചേർക്കാമെന്ന് ആദ്യം നോക്കാം അതിനുമുമ്പ് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കോഡുകളിൽ അഭിപ്രായങ്ങൾ ചേർക്കുന്നത് അഭിപ്രായങ്ങൾ ചേർക്കുന്നത് നിങ്ങളുടെ കോഡിന്റെ വായനാക്ഷമത മെച്ചപ്പെടുത്തുന്നു അഭിപ്രായങ്ങളിൽ നിങ്ങൾ എഴുതുന്ന കോഡിന്റെ ഉദ്ദേശ്യം നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്ന ഉദ്ദേശ്യം നിറവേറ്റുന്നതിന് ഒരു അൽഗോരിതം എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാം ഡോക്യുമെന്റേഷൻ ജനറേറ്ററുകൾ തന്നെ സോഴ് സ് കോഡിന് പുറത്തുള്ള ഡോക്യുമെന്റേഷൻ സൃഷ്ടിക്കുന്നതിനും അഭിപ്രായങ്ങൾ എഴുതുന്നത് ഞങ്ങളെ സഹായിക്കുന്നു ആർ സ്ക്രിപ്റ്റിലെ ഒരൊറ്റ വരിയിലേക്ക് അഭിപ്രായങ്ങൾ എങ്ങനെ ചേർക്കാമെന്ന് നോക്കാം ആദ്യം നിങ്ങൾ കണ്ടാൽ അഭിപ്രായത്തിന്റെ തുടക്കത്തിൽ ഹാഷ് കീ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരൊറ്റ വരി ആർ അഭിപ്രായമിടാൻ കഴിയും ഈ ഉദാഹരണത്തിൽ ഞാൻ ഈ ആദ്യ അഭിപ്രായം ഒരു ഹാഷ് കീ അഭിപ്രായപ്പെട്ടു അത് ഈ കമാൻഡ് പച്ചയാക്കുകയും ഈ പ്രോഗ്രാം എന്താണ് ചെയ്യുന്നതെന്ന് ഈ കമാൻഡുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇത് ചെയ്യുന്നത് ഒരൊറ്റ നമ്പർ എടുത്ത് അതിന്റെ 10 മടങ്ങ് മൂല്യമുള്ള ഒരു മൂല്യം കണക്കാക്കുന്നു എന്നതാണ് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഞാൻ ഒരു വേരിയബിളിനെ 10 നിർവചിക്കുന്നു അത് ഞാൻ ഇൻപുട്ട് നമ്പറായി അഭിപ്രായമിടുന്നു ഇപ്പോൾ ഞാൻ ഈ പ്രവർത്തനം വിശദീകരിക്കുന്നു അത് ഇവിടെ സംഭവിക്കുന്നു b എന്നത് ഒരു 10 മടങ്ങ് ആയി കണക്കാക്കുന്നു മുമ്പത്തെ പ്രഭാഷണത്തിൽ നിങ്ങൾ ഓർമ്മിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വേരിയബിളിന് ഒരു മൂല്യം നൽകുന്നതിന് ഞങ്ങൾ ഈ ചിഹ്നം ഉപയോഗിച്ചു ഇവിടെ പ്രകടമാക്കിയ ആർ സ്റ്റുഡിയോയിൽ അഭിപ്രായമിടുന്നതെങ്ങനെയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഫയൽ കൂടുതൽ വായിക്കാൻ കഴിയും നിങ്ങൾക്ക് ചില കോഡ് കോഡുകൾ നിർമ്മിക്കുന്നതിനും അഭിപ്രായങ്ങൾ ഉപയോഗിക്കാം ഇവിടെ വരിയുടെ തുടക്കത്തിൽ ഒരു ഹാഷ് കീ ചേർത്ത് എനിക്ക് വേണമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും 14 എന്ന് പറയുന്ന ഈ വരി അഭിപ്രായമിടാൻ ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് മുന്നിൽ ഒരു ഹാഷ് കീ സൂക്ഷിച്ചുകൊണ്ട് എനിക്ക് അത് അഭിപ്രായമിടാൻ കഴിയും ആർ ൽ ഒരേസമയം ഒന്നിലധികം വരികളിലേക്ക് അഭിപ്രായങ്ങൾ എങ്ങനെ ചേർക്കാമെന്ന് ഇപ്പോൾ ഞങ്ങൾ കാണും കഴ്സർ ഉപയോഗിച്ച് അഭിപ്രായമിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നിലധികം ലൈനുകൾ തിരഞ്ഞെടുക്കുന്നതിന് ഞങ്ങൾ ആദ്യം 2 വഴികളുണ്ട് തുടർന്ന് പ്രധാന കോമ്പിനേഷൻ നിയന്ത്രണം ഷിഫ്റ്റ് C ഉപയോഗിച്ച് അഭിപ്രായമിടാനോ അസ്വസ്ഥത കാണാനോ ഉപയോഗിക്കുന്നു തിരഞ്ഞെടുത്ത വരികൾ മറ്റൊരു വഴി ജിയുഐ ഉപയോഗിക്കുക എന്നതാണ് കോഡ് മെനുവിൽ ക്ലിക്കുചെയ്യുകയാണെങ്കിൽ കഴ് സർ ഉപയോഗിച്ചും കോഡ് മെനുവിലും നിങ്ങൾ അഭിപ്രായമിടാൻ ആഗ്രഹിക്കുന്ന വരികൾ തിരഞ്ഞെടുക്കുക അതിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒരു പോപ്പ് അപ്പ് വിൻഡോ പോപ്പ്ട്ട് ചെയ്യുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത വരികളെ ഉചിതമായി അഭിപ്രായമിടുകയോ അസ്വസ്ഥമാക്കുകയോ ചെയ്യുന്ന അഭിപ്രായമോ അസ്വസ്ഥതയോ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഉറവിടവും ഉറവിടവും ഉപയോഗിച്ച് കോഡുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കൺസോൾ കുഴപ്പത്തിലാകും കൺസോൾ മായ് ക്കേണ്ടത് ആവശ്യമാണ് കൺസോൾ എങ്ങനെ മായ് ക്കാമെന്ന് നോക്കാം കുറുക്കുവഴി കീ നിയന്ത്രണം L ഉപയോഗിച്ച് കൺസോൾ മായ് ക്കാനാകും നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഈ കോഡിൽ ഞാൻ ഒരു നിർവചിക്കുകയും കണക്കാക്കുകയും ചെയ്ത b നിർവചിക്കുകയും ഒരു കോമ ബി അച്ചടിക്കുകയും ചെയ്തു ഞാൻ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ കമാൻഡുകളും ഇവിടെ അച്ചടിക്കും ഇപ്പോൾ ഈ കൺസോൾ മായ് ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഞാൻ ഇവിടെ ക്ലിക്കുചെയ്യണം പ്രധാന കോമ്പിനേഷൻ നിയന്ത്രണം L നൽകണം ഞാൻ ഇത് ചെയ്തുകഴിഞ്ഞാൽ കൺസോൾ മായ് ക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ക്ലിയറിംഗ് കൺസോൾ വർക്ക് സ് പെയ് സിൽ ഉള്ള വേരിയബിളുകൾ ഇല്ലാതാക്കില്ലെന്ന് ഓർക്കുക ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും വർക്ക് സ് പെയ് സിലെ കൺസോൾ മായ് ച്ചു ഞങ്ങൾക്ക് ഇപ്പോഴും മുമ്പ് സൃഷ്ടിച്ച വേരിയബിളുകൾ ഉണ്ട് ആർ എൻ വയോൺ മെൻറിൽ നിന്നും വേരിയബിളുകൾ എങ്ങനെ മായ് ക്കാമെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം ആർ എം കമാൻഡ് ഉപയോഗിച്ച് ആർ എൻ വയോൺ മെൻറിലെ വേരിയബിളുകൾ മായ് ക്കാൻ കഴിയും ആർ എൻ വയോൺ മെൻറിൽ നിന്നും ഒരൊറ്റ വേരിയബിൾ മായ് ക്കാൻ നിങ്ങൾ താൽ പ്പര്യപ്പെടുമ്പോൾ നിങ്ങൾ ക്ക് ആർ എം ഫംഗ്ഷൻ ഉപയോഗിക്കാൻ കഴിയും തുടർന്ന് നിങ്ങൾ നീക്കംചെയ്യാൻ താൽ പ്പര്യപ്പെടുന്ന വേരിയബിളും ഇവിടെ കാണിച്ചിരിക്കുന്നു പരിസ്ഥിതിയിൽ ഉള്ള എല്ലാ വേരിയബിളുകളും ഇല്ലാതാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഒരു ആർഗ്യുമെന്റ് ലിസ്റ്റ് ls ഉപയോഗിച്ച് പരാൻതീസിസ് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് rm ഉപയോഗിക്കാം എന്നതാണ് പരിസ്ഥിതി ചരിത്ര പാളിയിൽ ജിയുഐ ഉപയോഗിച്ച് പരിസ്ഥിതിയിലെ എല്ലാ വേരിയബിളുകളും മായ് ക്കാൻ കഴിയും നിങ്ങൾ ഈ ബ്രഷ് ബട്ടൺ കാണുമ്പോൾ അത് പോപ്പ് അപ്പ് ചെയ്യും പരിസ്ഥിതിയിൽ ലഭ്യമായ എല്ലാ വസ്തുക്കളും മായ് ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്ന ഒരു വിൻഡോ അതെ എന്ന് പറഞ്ഞാൽ അത് എല്ലാ വേരിയബിളുകളും മായ് ക്കും അത് അവിടെ കാണിച്ചിരിക്കുന്നു പരിസ്ഥിതി ഇപ്പോൾ ശൂന്യമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ എങ്ങനെ സംരക്ഷിക്കാമെന്ന് നോക്കാം ആർ ഐയിലെ വർക്ക് സ് പെയ് സിൽ നിന്നുള്ള ഡാറ്റ ഇതിനകം സൂചിപ്പിച്ചത് ആർ പരിതസ്ഥിതിയിൽ സംരക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ താൽക്കാലികമാണെന്നും നിങ്ങൾ ആർ അടയ്ക്കുമ്പോൾ അത് നിലനിർത്തുന്നില്ലെന്നും ആണ് ആർ സ്റ്റുഡിയോ സെഷൻ അല്ലെങ്കിൽ പുനരാരംഭിക്കുക നിലവിലെ സെഷനിൽ ഇതിനകം ഉള്ള ഡാറ്റ സംരക്ഷിക്കുന്നതിന് ചിലപ്പോൾ ആവശ്യമാണ് ഡാറ്റ ഈ ഫോമിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു മാത്രമല്ല ആ പ്രവർത്തനങ്ങൾ ആവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ആരംഭിക്കുന്ന സ്ഥലത്ത് നിന്ന് ആരംഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആർ പരിതസ്ഥിതിയിൽ നിന്ന് ഡാറ്റ സംരക്ഷിക്കേണ്ടതുണ്ട് ആദ്യത്തേത് 2 വഴികളുണ്ട് നിങ്ങൾ ആർ സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ അടയ്ക്കുമ്പോൾ യാന്ത്രിക ഓപ്ഷൻ അത് നിങ്ങളോട് ചോദിക്കും അതെ എന്ന് പറഞ്ഞാൽ വർക്ക്സ്പേസ് ഇമേജ് സംരക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വർക്ക് സ് പെയ് സിൽ ഉള്ള എല്ലാ വേരിയബിളുകളും ഇത് സംരക്ഷിക്കും ആർ സ്റ്റുഡിയോ സംരക്ഷിക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ പുറത്തുകടക്കുകയും വർക്ക് സ്പെയ്സ് വിവരങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യില്ല മാനുവൽ രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് വർക്ക്സ്പേസ് വിവരങ്ങൾ സംരക്ഷിക്കാനും കഴിയും അവിടെ നിങ്ങൾക്ക് സേവ് കമാൻഡ് ഉപയോഗിച്ച് ഒരു ഫയലിലേക്ക് വിവരങ്ങൾ സംരക്ഷിക്കാൻ കഴിയും കൂടാതെ സംരക്ഷിച്ച വിവരങ്ങൾ ഭാവി സെഷനുകൾക്കായി പുനർ ലോഡുചെയ്യാനും കഴിയും R ൽ അത് എങ്ങനെ ചെയ്യണമെന്ന് ലോഡ് കമാൻഡ് നമുക്ക് നോക്കാം വർക്ക് സ് പെയ് സിൽ ഉള്ള ഒരു വേരിയബിൾ എങ്ങനെ sess1 dot R ഡാറ്റ എന്ന ഫയലിലേക്ക് സംരക്ഷിക്കാമെന്ന് ഇവിടെയുള്ള ആദ്യ വരി കാണിക്കുന്ന ഒരു ഉദാഹരണ കോഡ് ഇതാ അതിനാൽ അഭിപ്രായങ്ങളിൽ ഒരൊറ്റ വേരിയബിൾ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കമാൻഡാണിതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മുഴുവൻ വർക്ക് സ് പെയ് സും പറയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ കമാൻഡ് സേവ് ലിസ്റ്റ് ls ആർ ഗ്യുമെൻറ് ഉപയോഗിച്ച് എല്ലാ ഡോട്ട് നാമങ്ങളും ശരിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ഫയൽ നാമം നൽകാം ഈ കമാൻഡിനായുള്ള കുറുക്കുവഴി കീ ഇവിടെ നൽകിയിരിക്കുന്ന ഡോട്ട് ഇമേജ് സംരക്ഷിക്കുക അത് പരിസ്ഥിതിയിലെ ഡാറ്റ നിലവിലെ വർക്കിംഗ് ഡയറക്ടറിയിലെ ഡോട്ട് ആർ ഡാറ്റ ഫയലിലേക്ക് സംരക്ഷിക്കുന്നു നിങ്ങൾ അത് ചെയ്തുകഴിഞ്ഞാൽ ഈ കമാൻഡ് ലോഡ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് പിന്നീട് വർക്ക്സ്പേസ് വിവരങ്ങൾ ലോഡ് ചെയ്യാൻ കഴിയും ഫയൽ വ്യക്തമാക്കാൻ കഴിയും നിങ്ങൾ സംരക്ഷിക്കുന്ന ഫയൽ നാമം ഡാറ്റയിലേക്ക് അതിനാൽ ഈ പ്രഭാഷണത്തിൽ ആർ ഫയലിലേക്ക് അഭിപ്രായങ്ങൾ എങ്ങനെ ചേർക്കാമെന്ന് ഞങ്ങൾ കണ്ടു കൺസോൾ എങ്ങനെ മായ് ക്കാം പരിസ്ഥിതിയിൽ ഉള്ള ആർ ഒബ് ജക്റ്റുകൾ എങ്ങനെ മായ് ക്കാം കൂടാതെ ആർ എൻ വയോൺ മെൻറിൽ ലഭ്യമായ വേരിയബിളുകൾ എങ്ങനെ സംരക്ഷിക്കാമെന്നും ഞങ്ങൾ കണ്ടു കൂടുതൽ ഉപയോഗത്തിനായി അടുത്ത പ്രഭാഷണത്തിൽ ഞങ്ങൾ നിങ്ങളെ അടിസ്ഥാന ഡാറ്റാ തരങ്ങളായ ആർ അവതരിപ്പിക്കാൻ പോകുന്നു